ചുരുക്കത്തിൽ പാർട്ടീഷനിങ് പ്ലെയ്സ്മെന്റ് ഫ്ലോർ പ്ലാനിംഗ് റൂട്ടിംഗ് തുടങ്ങിയവ പോലുള്ള വിവിധ ഫിസിക്കൽ ഡിസൈൻ ഓട്ടോമേഷൻ ഘട്ടങ്ങൾ ഞങ്ങൾ നേരത്തെ നോക്കിയിരുന്നു പിന്നീട് പെർഫോമൻസ് ഡ്രൈവൻ അടിസ്ഥാനമാക്കിയുള്ള ചില പ്രശ്നങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്ലെയ്സ്മെന്റും റൂട്ടിംഗും ഫിസിക്കൽ സിന്തെസിസ് നുള്ള ചില സാങ്കേതികതകളും ഞങ്ങൾ നോക്കി നമുക്ക് എങ്ങനെ ചില സമയ തിരുത്തലുകൾ വരുത്താം ഇപ്പോൾ ഈ പെർഫോമൻസ് ഡ്രൈവുചെയ്ത പ്രശ്നങ്ങൾ പ്രാധാന്യമുള്ള ഉയർന്ന പെർഫോമൻസ് ഡിസൈനുകളുടെ മൊത്തത്തിലുള്ള ചിത്രം നോക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ നമ്മുടെ പെർഫോമൻസ് ഡ്രൈവെൻ ഡിസൈൻ ഫ്ലോ എന്തായിരിക്കണം ഈ പ്രഭാഷണത്തിലെ മൊത്തത്തിലുള്ള ചിത്രം ഞങ്ങൾ പരിശോധിക്കുന്നു ആധുനിക VLSI സർക്യൂട്ടുകളിൽ കൂടുതലോ കുറവോ സ്റ്റാൻഡേർഡ് പ്രാക്ടീസായ പെർഫോമൻസ് ഡ്രൈവൻ ഫിസിക്കൽ ഡിസൈൻ ഫ്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം അതിനാൽ ഇവിടെ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ നോക്കിയ സാങ്കേതികതകളാണെങ്കിലും അതിനെ ഒരു സ്ഥിരതയുള്ള ഡിസൈൻ ഫ്ലോയിൽ സംയോജിപ്പിക്കാൻ ശ്രമിക്കാം സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് പോലുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ കാണാം അത് ഒരു ഘട്ടമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല ഞങ്ങൾ ഇത് ഒരു ഉപകരണമായി കണക്കാക്കുന്നു കൂടാതെ ഈ ഉപകരണം പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിൽ നിരവധി തവണ ഉപയോഗിക്കാം അതുപോലെ തന്നെ ബഫറിംഗ് എന്നത് വളരെ സാധാരണമായ ഒരു സാങ്കേതികതയാണ് അത് ഒന്നിലധികം തവണ ചെയ്യേണ്ടിവരും പ്രാരംഭ തലത്തിലുള്ള ബഫറിംഗ് ഉണ്ടായിരിക്കാം 1 സൈക്കിളിന് ശേഷമായിരിക്കാം ചില സമയങ്ങൾ തൃപ്തികരമല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് കൂടി ചെയ്യേണ്ടി വന്നേക്കാം ബഫറിംഗ് അതിനാൽ ചെയ്യേണ്ട ചില ആവർത്തന ഘട്ടങ്ങളുണ്ട് നിരവധി ആവർത്തന ഘട്ടങ്ങളുണ്ട് അവസാനം പോലും ചില കാര്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം നിങ്ങൾ അവിടെ കുറച്ച് തിരുത്തലുകൾ കൂടി ചെയ്യേണ്ടതായി വന്നേക്കാം നമുക്ക് സാധാരണ ഫിസിക്കൽ ഡിസൈൻ ഫ്ലോ ഒരിക്കൽ കൂടി പരിശോധിക്കാം ഇപ്പോൾ സാധാരണ ഫിസിക്കൽ ഡിസൈൻ ഫ്ലോ ആരംഭിക്കുന്നത് ചിപ്പ് പ്ലാനിംഗ് എന്ന പേരിൽ നിന്നാണ് ഈ പദം ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ അതിനെ ഫ്ലോർ പ്ലാനിംഗ് പ്ലേസ്മെന്റ് എന്ന് വിളിച്ചിരുന്നു എന്നാൽ ചിപ്പ് പ്ലാനിങ്ങിൽ ഞങ്ങൾ 3 വ്യത്യസ്ത കാര്യങ്ങൾ ഉൾകൊള്ളിക്കുന്നു ഞാൻ അതു ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കാം ചിപ്പ് പ്ലാനിംഗിൽ നമ്മൾ സംസാരിക്കുന്നത് ചിപ്പ് പ്ലാനിംഗ് എന്നതിനെക്കുറിച്ചാണ് ഇത് വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആദ്യം IO പ്ലെയ്സ്മെന്റ് എന്ന് വിളിക്കുന്ന ഒരു ഘട്ടമാണ് IO പ്ലെയ്സ്മെന്റ് എന്നാൽ ഈ ചിപ്പിനായി ഞങ്ങൾ IO പിന്നുകൾ സ്ഥാപിക്കണം അല്ലെങ്കിൽ ഏത് പിൻ ഏത് സിഗ്നൽ വഹിക്കണം ഇതാണ് IO പ്ലെയ്സ്മെന്റ് അപ്പോൾ നമുക്ക് തീർച്ചയായും ഫ്ലോർ പ്ലാനിംഗ് നടത്താം ഇന്നത്തെ മിക്ക സർക്യൂട്ടുകളും സ്റ്റാൻഡേർഡ് സെല്ലുകൾ ഫ്ലോർ പ്ലാനിംഗ് പ്ലെയ്സ്മെന്റ് എന്നിവ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ഫ്ലോർ പ്ലാനിംഗിൽ ഞങ്ങൾ പറയുന്നത് മുഴുവൻ സ്റ്റാൻഡേർഡ് സെല്ലും ഏത് വരികളിലാണ് സ്ഥാപിക്കേണ്ടതെന്നും പവർ പ്ലാനിംഗ് ഒരുമിച്ച് ചെയ്ത മറ്റൊരു കാര്യവുമുണ്ടെന്നും കാരണം ഇപ്പോൾ നമുക്ക് സാധാരണ സെല്ലുകൾ ഇതിനകം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു അത് നമുക്കറിയാം നമുക്ക് ആവശ്യമായ വൈദ്യുതി കണക്ഷനുകൾ എവിടെയാണ് VDD യും ഇവിടെയും ഗ്രൌണ്ട് VDD യും ഇവിടെ ഗ്രൌണ്ട് പോലെ അതിനാൽ നിങ്ങൾ എന്തുതന്നെയായാലും വൈദ്യുതി വിതരണവും ഗ്രൌണ്ട് ലൈനുകളും വിതരണം ചെയ്യുന്നതിന് ഞങ്ങൾ ഏത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാലും നിങ്ങൾ മൊത്തത്തിൽ പ്ലാനിംഗ് ചെയ്യും അതിനാൽ ഇത്തരത്തിലുള്ള ഒരു പവർ പ്ലാനിംഗ് നെറ്റ്വർക്കും നിങ്ങൾ ചെയ്യുന്നു അതിനാൽ ഈ മുഴുവൻ പ്രക്രിയയും ചിലപ്പോൾ ചിപ്പ് പ്ലാനിംഗ് എന്ന് വിളിക്കപ്പെടുന്നു മൊത്തത്തിൽ ചിപ്പ് അത് എങ്ങനെ കാണപ്പെടുന്നു എവിടെയാണ് പിൻസ് ഈ പിൻസ് എന്തായിരിക്കും ഇവയാണ് സെൽസ് ഏത് സെല്ൽസാണ് ഏത് വരികളിൽ ഇടുക പവർ നെറ്റ്വർക്ക് എങ്ങനെ കാണപ്പെടും വ്യത്യസ്ത വരികളിലേക്കും സെല്ലുകളിലേക്കും നിങ്ങൾക്ക് ശക്തി നൽകുന്നു അതിനാൽ ട്രയൽ സിന്തെസിസ് ഒരു കാര്യം ഇവിടെയുണ്ട് അത് നിങ്ങൾക്ക് ലഭിച്ച പ്രാരംഭ കാര്യമാണ് ഇത് ഫ്ലോർ പ്ലാനിംഗ് ഉപകരണം നൽകുന്നു അങ്ങനെ ആവശ്യമായ മൊത്തം വിസ്തീർണ്ണം നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഈ എസ്റ്റിമേറ്റിൽ നിങ്ങൾക്ക് ബഫറുകൾക്കുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം അതിനാൽ റൂട്ടിംഗിനും ഗേറ്റ് സൈസിങ്നും അധിക സ്ഥലം ചില ഗേറ്റ്സ് വലുതാക്കേണ്ടി വന്നേക്കാം അതിനാൽ ഈ കാര്യങ്ങൾക്കായി നിങ്ങൾ കുറച്ച് അധിക ഇടങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇത് നേരത്തെ ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഡിസൈൻ ഫ്ലോയുടെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ കൂട്ടിച്ചേർക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് ലോജിക് സിന്തസിസും ടെക്നോളജി മാപ്പിംഗും തീർച്ചയായും ഇത് നേരത്തെ ചെയ്യാവുന്നതാണ് ഇത് ഒരു ഗേറ്റ് ലെവൽ സെൽ ലെവൽ നെറ്റ്ലിസ്റ്റ് ഉണ്ടാക്കുന്നു നിങ്ങൾ ഒരു ഫ്ലോർ പ്ലാനിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവ ഒരുമിച്ച് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇത് നേരത്തേ ചെയ്യാവുന്നതാണ് നിങ്ങൾ സെല്ലുകൾ സ്ഥാപിച്ച ശേഷം നിങ്ങൾക്ക് ആഗോള പ്ലേസ്മെന്റുകൾ നടത്താൻ കഴിയും ഇപ്പോൾ ആഗോള പ്ലെയ്സ്മെന്റ് ഞാൻ പറഞ്ഞതെന്തും നിങ്ങൾ ബ്ലോക്കുകളോ സെല്ലുകളോ സ്റ്റാൻഡേർഡ് സെല്ലിന്റെ വരികളായി സ്ഥാപിക്കുന്നു ഒരു സാധാരണ VLSI ഡിസൈൻ ഫ്ലോയിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാര്യം ചെയ്യാൻ കഴിയില്ല ഇത് ആവർത്തിക്കുന്ന നടപടിയാണ് അതിനാൽ നിങ്ങൾ ഒരു പ്ലെയ്സ്മെന്റ് ഉണ്ടാക്കുന്നു എന്തെങ്കിലും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം എവിടെയെങ്കിലും തിരക്ക് ഉണ്ട് ചില സ്ഥലങ്ങളിൽ വളരെയധികം കാലതാമസമുണ്ട് നിങ്ങൾ പ്ലെയ്സ്മെന്റ് തുടർച്ചയായി മാറ്റേണ്ടിവരാം അതിനാൽ ഇവിടെ ഞാൻ പറയുന്നത് ഇതാണ് ഗ്ലോബൽ പ്ലേസ്മെന്റ് പ്രക്രിയ ഇത് സാധാരണയായി ലൊക്കേഷനുകൾ വസ്തുക്കളായി നിയോഗിക്കുന്നു അവിടെ ഞാൻ ഒരു സ്ലൈഡ് കാണിക്കാം ഇവിടെ ഞങ്ങൾ ക്ലസ്റ്ററിംഗ് വിവരങ്ങൾ നോക്കുന്നു നിങ്ങൾ ചിപ്പുകളിലുടനീളം അനൌപചാരികമായി സെൽസ് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു ഞാൻ പറയുന്നത് പോലെ തുടക്കത്തിൽ നിങ്ങളുടെ ചിപ്പ് പ്ലാൻ ഇതുപോലെ കാണപ്പെടുമെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം ഇവിടെ ഈ ഇരുണ്ട പ്രദേശം അർത്ഥമാക്കുന്നത് ഇവിടെ ധാരാളം ക്ലസ്റ്ററും തിരക്കും ഉണ്ട് ആഗോള പ്ലെയ്സ്മെന്റ് പറയുന്ന പല സെല്ലുകളും അവർ മാപ്പിംഗ് നടത്തുമെന്ന് പറയുന്നു ഇവിടെ മാപ്പ് ചെയ്യുക അതിനാൽ നിങ്ങൾ ഈ പ്രദേശം പതുക്കെ വ്യാപിക്കുന്നു അത് മുഴുവൻ ചിപ്പിലും വ്യാപിക്കുന്നു ഒടുവിൽ പലതും നിങ്ങൾക്ക് ഇതുപോലെ ലഭിക്കും അതിനാൽ നിങ്ങളുടെ മുഴുവൻ പ്ലെയ്സ്മെന്റും ചിപ്പിന്റെ മുഴുവൻ ഭാഗത്തും വ്യാപിക്കണം ഇതുപോലുള്ള ഒന്ന് ഗ്ലോബൽ പ്ലെയ്സ്മെന്റ് പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എവിടെയാണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ക്ലോക്ക് നെറ്റ്വർക്ക് സമന്വയിപ്പിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നിങ്ങൾ ഗ്ലോബൽ പ്ലെയ്സ്മെന്റ് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്ററുകൾ എവിടെയാണെന്നും നിങ്ങളുടെ ഫ്ലിപ്പ് പോപ്പുകൾ എവിടെയാണെന്നും തുടർച്ചയായ ഘടകങ്ങൾ നിങ്ങൾക്ക് അറിയാം അതിനാൽ ആ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലോക്ക് നെറ്റ്വർക്ക് സമന്വയത്തിലേക്ക് പോകാം അതിനാൽ ഈ ക്ലോക്ക് നെറ്റ്വർക്ക് ഞങ്ങൾ നേരത്തെ കണ്ടതായി നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് ഒരു ലളിതമായ ക്ലോക്ക് ട്രീ ആകാം ഇത് ഒരു H ട്രീ അല്ലെങ്കിൽ ഒരു MMM അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോലെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന തലത്തിലുള്ള ഒരു വൃക്ഷം അടങ്ങുന്ന കൂടുതൽ ഫ്ലെക്സിബിൾ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കാം കൂടാതെ താഴത്തെ തലത്തിൽ വളരെ സാധാരണമായ മെഷും സാധാരണയായി ഞങ്ങൾക്ക് പ്രോസസ്സറുകൾ ഉണ്ട് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് ഉണ്ട് കാരണം ഒരു പ്രോസസർ ചിപ്പിൽ നിങ്ങൾക്ക് ക്ലോക്ക് സിഗ്നലുകൾ വഹിക്കേണ്ട ധാരാളം പോയിന്റുകൾ ഉണ്ട് ക്ലോക്ക് സിഗ്നലുകൾക്കായി ധാരാളം ടാർഗെറ്റ് അല്ലെങ്കിൽ സിങ്ക് പോയിന്റുകൾ ഉണ്ട് നമുക്ക് സാധാരണയായി താഴത്തെ തലത്തിൽ ഒരു മെഷ് ഉണ്ട് മുകളിലെ തലത്തിൽ ഒരു സാധാരണ ട്രീ പിന്നെ ഒരു H ട്രീയും സാധാരണയായി നല്ലതാണ് ഇത് ഒരു ചെറിയ പ്രോസസർ രൂപകൽപ്പനയിൽ ഒരു ബഫർ ചെയ്ത ക്ലോക്ക് ട്രീ കാണിക്കുന്ന ഒരു സാമ്പിൾ സ്ലൈഡ് മാത്രമാണ് ഈ ദീർഘചതുരങ്ങൾ ബഫറുകൾ തിരുകിയ സ്ഥലങ്ങളും കണക്ഷനുകൾ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളും സൂചിപ്പിക്കുന്നു കൂടാതെ ക്ലോക്ക് നന്നായി എടുത്ത പോയിന്റുകൾ x സൂചിപ്പിക്കുന്നു പ്ലേസ്മെന്റ് പൂർത്തിയാക്കിയ ശേഷം ഈ സെല്ലുകളുടെ സ്ഥാനങ്ങൾ നന്നായിരിക്കുന്നു അവ ഒരു ഗ്രിഡിലേക്ക് വിന്യസിച്ചിരിക്കുന്നു ഇവയ്ക്ക് ശേഷം നിങ്ങൾക്ക് കാണാം സാധാരണയായി പ്ലേസ്മെന്റ് സമയത്ത് ഞങ്ങൾക്ക് ഗ്രിഡ് ആശയം ഇല്ല നിങ്ങൾക്ക് ഒരു സെൽ ഫലത്തിൽ എവിടെയും സ്ഥാപിക്കാനാകും എന്നാൽ നിങ്ങൾ റൂട്ടിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ചില വരികളും നിര ആശയങ്ങളും ട്രാക്കുകളും ചില നിരകളും ഉണ്ടാകും അതിനാൽ അവിടെ നിങ്ങൾ എല്ലാം ഒരു ഗ്രിഡിലേക്ക് വിന്യസിക്കണം അതിനാൽ ഈ പ്രാരംഭ നില പ്ലെയ്സ്മെന്റ് അവസാനിച്ചതിനുശേഷം ഈ ബ്ലോക്കുകളുടെയോ സെല്ലുകളുടെയോ ഗ്രിഡ് ലൊക്കേഷനുകളിലേക്ക് ഒരു യൂണിഫോം ഗ്രിഡിലേക്ക് നിങ്ങൾ അലൈൻമെന്റ് ചെയ്യണം നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗോള റൂട്ടിംഗിനും ലെയർ അസൈൻമെന്റിനുമായി മുന്നോട്ട് പോകാം ഓരോ റൂട്ടിനും ലെയർ അസൈൻമെന്റ് പറയുന്നിടത്ത് ഏത് ലെയർ ഈ ലെയർ സാധാരണയായി മെറ്റൽ ലെയറാണ് അതായത് ഈ നെറ്സ് ബന്ധിപ്പിക്കാൻ ഏത് ലോഹ ലെയർഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ ഗ്ലോബൽ റൂട്ടർ സാധാരണയായി ലീയുടെ അൽഗോരിതം Lee's algorithm പറയുന്നത് പോലെ ഒരൊറ്റ ലെയറിൽ റൂട്ടിംഗ് പൂർത്തിയാക്കുന്നു അവർ ലീയുടെ അൽഗോരിതം അല്ലെങ്കിൽ ഹാഡ്ലോക്കിന്റെ അൽഗോരിതംHadlock's algorithm ചെയ്യും ഒരൊറ്റ ലെയർ ഒറ്റ മെറ്റൽ ലെയർ എന്നിവയിൽ ഒരു റൂട്ട് കണ്ടെത്താൻ അവർ ശ്രമിക്കും ഇപ്പോൾ നിങ്ങൾ റൂട്ടിംഗ് നടത്തുമ്പോൾ നിങ്ങൾ വയറിംഗ് കൺജഷൻസ് എന്ന് വിളിക്കപ്പെടാം അവിടെ ചിപ്പിലെ പല മേഖലകളും നിങ്ങൾ കണ്ടെത്തിയേക്കാം അവിടെ വയറിംഗ് കൺജഷൻസ് വളരെ മോശമാണ് അതിനാൽ നിങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിക്കേണ്ടി വന്നേക്കാം അതിനാൽ കൺജഷൻസ് ഡ്രൈവൻ പ്ലെയ്സ്മെന്റ് പോലുള്ള എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്ലെയ്സ്മെന്റ് പരിഷ്ക്കരിക്കുന്നു ഞാൻ ഒരു ഉദാഹരണം കാണിക്കുകയാണ് ഇത് നിങ്ങളെ കാണിക്കുന്നു അതായത് ചിപ്പിന്റെ വിസ്തൃതിയിൽ ഈ കൊടുമുടികൾ കൺജഷൻസ് അളവ് സൂചിപ്പിക്കുന്നു ധാരാളം കൺജഷൻസ് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമുണ്ട് ഇപ്പോൾ ആവർത്തനത്തിലൂടെ ഞങ്ങൾ കൺജഷൻസ് കുറയ്ക്കാനും ശ്രമിക്കുന്നു ഒടുവിൽ നിങ്ങൾ കാണും അവയ്ക്ക് ഒരേപോലെ കൺജഷൻസ് ഇല്ല കൺജഷൻസ് എന്നാൽ റൂട്ടിംഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൺജഷൻസ് സൂചിപ്പിക്കുന്നു അതിനാൽ കൺജഷൻസ് ഉണ്ടെങ്കിൽ റൂട്ടിംഗ് പ്രക്രിയയിൽ നിങ്ങൾക്ക് റൂട്ടിംഗ് പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ അത്തരം സാഹചര്യം ഉണ്ടാകരുത് അതിനാൽ ഞാൻ സൂചിപ്പിച്ച കൺജഷൻസ് അറിയാവുന്ന വിശദമായ പ്ലെയ്സ്മെന്റ് എന്ന് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം അതിനാൽ കൺജഷൻസ് മൂല്യം ഗണ്യമായ അളവിൽ മെച്ചപ്പെടുന്ന തരത്തിൽ നിങ്ങൾ പ്ലേസ്മെന്റ് വീണ്ടും പരിഷ്കരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ വിശദമായ റൂട്ടിംഗിലേക്ക് പോകുക ആഗോള റൂട്ടിംഗ് നിങ്ങൾക്ക് ഏകദേശ റൂട്ടുകൾ നൽകുന്നു ഇപ്പോൾ വിശദമായ റൂട്ടിംഗ് ഈ റൂട്ടുകൾക്ക് കൃത്യമായ തിരശ്ചീനവും ലംബവുമായ മെറ്റൽ ലെയർ നൽകും വയറുകൾ സൃഷ്ടിക്കുന്ന ഈ റൂട്ടുകൾ പോലെ ഒരു അധിക ഓപ്ഷണൽ ഘട്ടം ഇപ്പോൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് വിശ്വാസ്യതയും നിർമ്മാണവും വൈദ്യുത പരിശോധനയും അടങ്ങുന്ന മറ്റൊരു ആവർത്തനത്തിലൂടെ കടന്നുപോകേണ്ടി വന്നേക്കാം വിശ്വാസ്യത എന്നത് ചാനൽ റൂട്ടിംഗ് പ്രക്രിയ നിങ്ങൾ കണ്ടുവെന്ന് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ തിരശ്ചീന ട്രാക്കുകൾ ലംബ ട്രാക്കുകൾ എന്നിവയുണ്ട് കൂടാതെ ലെയറുകളിലുടനീളം പോയിന്റുകളെ ബന്ധിപ്പിക്കുന്ന ചില വയർ കണക്ഷനുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് രണ്ട് ലെയറുകൾ അല്ലെങ്കിൽ മൾട്ടി ലെയർ ചാനൽ റൂട്ടിംഗ് ഉണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന വയർ കണക്ഷൻ നിങ്ങൾക്ക് വിശ്വാസ്യതയില്ലാത്തതിന്റെ ചില സോഴ്സ് പറയാം നിങ്ങൾക്ക് പറയാൻ കഴിയും കാരണം നിങ്ങൾ ആത്യന്തികമായി ഒരു ദ്വാരം തുരന്ന് രണ്ട് ലെയറുകളിലായി ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു അതിനാൽ വയർ കണക്ഷന്റെ എണ്ണം കൂടുന്തോറും ചില മിസ് കണക്ഷൻ അയഞ്ഞ കണക്ഷൻ അല്ലെങ്കിൽ തെറ്റായ കണക്ഷൻ എന്നിവ കാരണം ചിപ്പ് പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കണക്ഷനിലെ വളവുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് ഒരു ലക്ഷ്യം ഇത് വയർ കണക്ഷന്റെ എണ്ണം സൂചിപ്പിക്കാം അതിനാൽ പലപ്പോഴും ഒരേ ലേയേർസിൽ അർത്ഥമാക്കുന്നത് മൂർച്ചയുള്ള വളവുകൾ ഉപയോഗിക്കുന്നതിനുപകരം റൂട്ടിംഗ് നടത്തുമ്പോൾ നിങ്ങൾ 45 ഡിഗ്രി വളവ് പോലുള്ള ഒന്ന് ഉപയോഗിക്കുന്നു കാരണം മൂർച്ചയുള്ള വളവുകൾ മെറ്റൽ പൊട്ടി വിച്ഛേദിക്കപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇവയെയാണ് വിശ്വാസ്യതയും ഉൽപാദനക്ഷമതയും എന്ന് വിളിക്കുന്നത് എല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇത് നോക്കേണ്ട ഒന്നാണ് ഇലക്ട്രിക്കൽ വെരിഫിക്കേഷൻ എന്നാൽ നിങ്ങൾ വയറുകൾ സ്ഥാപിച്ചതിന് ശേഷം നിങ്ങൾ വയറുകളുടെ നീളം കാണുന്നു വേർതിരിക്കൽ മതി വയറുകളുടെ വീതി മതി നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ചില ലളിതമായ ഡിസൈൻ നിയമങ്ങളുണ്ട് അതിനാൽ ആ ഡിസൈൻ നിയമങ്ങളെല്ലാം ഒരു ഡിസൈൻ റൂൾ ചെക്കർ പരിശോധിച്ചുറപ്പിച്ചതാണ് അത് നിങ്ങൾക്ക് നന്നായി പറയാൻ കഴിയും ഇവിടെ ഞാൻ ചില ലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ നിങ്ങൾ ദയവായി ഈ കാര്യങ്ങൾ ശരിയാക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരികെ പോയി അവിടെ ചില തിരുത്തലുകൾ വരുത്തേണ്ടിവരും നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു എല്ലാം പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ മാസ്ക് ജനറേഷനായി മുന്നോട്ട് പോകുന്നു അതിനാൽ എല്ലാ സർക്യൂട്ട് ഘടകങ്ങളും പരസ്പരബന്ധവും ദീർഘചതുരങ്ങളാൽ പ്രതിനിധീകരിക്കുന്നു വിവിധ പാളികൾക്ക് ചുറ്റുമുള്ള ദീർഘചതുരങ്ങൾ പോളിസിലിക്കൺ ഡിഫ്യൂഷൻ മെറ്റൽ മെറ്റൽ 1 മെറ്റൽ 2 മെറ്റൽ 3 എന്നിങ്ങനെ നമുക്ക് ഫ്ലോ ചാർട്ട് രൂപത്തിൽ മൊത്തത്തിലുള്ള ഫ്ലോ നോക്കാം അതിനാൽ ആദ്യ ഘട്ടത്തിൽ ചിപ്പ് ആസൂത്രണം പൂർത്തിയായതായി ഞങ്ങൾ അനുമാനിക്കുന്നു ചിപ്പ് പ്ലാനിംഗ് ഫിസിക്കൽ ഡിസൈനിനുള്ള ഇൻപുട്ടായി നൽകിയിട്ടുണ്ട് ലോജിക് ഡിസൈനും ചെയ്തു അതിനാൽ നിങ്ങൾ ഒരുതരം ബ്ലോക്ക് ലെവൽ പ്ലേസ്മെന്റ് നടത്തുക അതിനാൽ നിങ്ങൾ ബ്ലോക്ക് ലെവൽ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ആഗോള പ്ലേസ്മെന്റ് സൃഷ്ടിക്കുന്ന ഔട്ട്പുട്ട്ടായി ചിലത് ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ചെയ്യുന്നതെന്തും ചിപ്പ് പ്ലാനിംഗ് എന്നതിനർത്ഥം നിങ്ങൾ ഇതിനകം IO പ്ലെയ്സ്മെന്റ് ചെയ്തു നിങ്ങൾ ഇതിനകം പവർ പ്ലാനിംഗ് ചെയ്തു എന്നാണ് ഇപ്പോൾ നിങ്ങൾ പ്രകടനം നടത്തുന്ന ട്രയൽ സിന്തസിസും ഫ്ലോർ പ്ലാനിംഗും ചെയ്യുന്നു പെർഫോമൻസ് ഡ്രൈവഡ് ഡിസൈൻ ഫ്ലോയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഘട്ടമാണിത് അതിനാൽ ഇതിൽ എന്താണ് ഉൾപ്പെടുന്നത് ഇതിൽ ബ്ലോക്ക് ഷേപ്പിംഗ് സൈസിംഗ് പ്ലെയ്സ്മെന്റ് എന്നിവ ഉൾപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെറ്സ് നെറ്റ് വെയിറ്റ്സ് വിമർശനാത്മകത സ്ലാക്ക് മൂല്യങ്ങൾ എന്നിവയെ ആശ്രയിച്ച് നിങ്ങൾക്ക് ആഗോള നെറ്റ് റൂട്ടുകൾ വിശകലനം ചെയ്യാം മന്ദഗതിയിലുള്ള മൂല്യങ്ങൾ നെഗറ്റീവ് ആണ് നിങ്ങൾ ചില ബഫറിംഗ് ഉപയോഗിക്കുന്നു ഇവിടെ ഈ തലത്തിൽ ചില ടൈമിംഗ് അനാലിസിസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചില ഏകദേശ സമയ കണക്കുകൂട്ടലുകൾ നടത്താം അത് കടന്നുപോകുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുക അത് പരാജയപ്പെട്ടാൽ വീണ്ടും പോകുകയും വീണ്ടും നിങ്ങളുടെ പ്ലേസ്മെന്റ് പരിഷ്കരിക്കുകയും ചെയ്യുക ഇത് ഒരൊറ്റ പ്രക്രിയയല്ല തുടർച്ചയായ ആവർത്തന പ്രക്രിയയാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ നിരവധി ആവർത്തനങ്ങൾ നടത്തുന്നു ഇത് ആദ്യപടിയാണ് ബ്ലോക്ക് ലെവൽ ഗ്ലോബൽ പ്ലെയ്സ്മെന്റിൽ നിന്ന് നിങ്ങൾ ഫിസിക്കൽ സിന്തസിസിലേക്ക് നീങ്ങുന്നു നിങ്ങൾ തീർച്ചയായും ഒരു ഗ്ലോബൽ പ്ലെയ്സ്മെന്റ് നെറ്റ് വെയ്റ്റ് ഓപ്ഷണൽ നെറ്റ് വെയിറ്റ്സ് എന്നിവ ഉപയോഗിച്ച് ആരംഭിക്കുക തുടർന്ന് നിങ്ങൾ ചില ഡിലേയ് കണക്കാക്കുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ബഫറുകൾ ഉപയോഗിക്കാം തുടർന്ന് നിങ്ങൾ വീണ്ടും സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് നടത്തുക അത് പരാജയപ്പെട്ടാൽ നിങ്ങൾ വീണ്ടും പോയി പ്ലേസ്മെന്റ് മാറ്റുക ഇപ്പോൾ ബഫറുകൾ ഉപയോഗിച്ചുള്ള ഈ ഡിലേയ് കണക്കാക്കൽ ഇവിടെ വിശദാംശങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾ ചില ഫിസിക്കൽ അല്ലെങ്കിൽ വെർച്വൽ ബഫറിംഗ് നടത്തുന്നു ഫിസിക്കൽ ബഫറിംഗ് എന്നാൽ നിങ്ങൾ ചില ബഫറുകൾ അവതരിപ്പിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ വെർച്വൽ ബഫറിംഗ് എന്നതിനർത്ഥം ഇവിടെ നിങ്ങൾക്ക് ഒരു ബഫർ ആവശ്യമായി വന്നേക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ നിങ്ങൾ ഉടൻ പരിചയപ്പെടുത്തുന്നില്ല നിങ്ങൾ പിന്നീട് അവതരിപ്പിക്കേണ്ടതായി വന്നേക്കാം അതിനാൽ ഫിസിക്കൽ ബഫറിംഗ് മാർഗങ്ങൾക്കായി നിങ്ങൾ യഥാർത്ഥത്തിൽ സർക്യൂട്ടുകൾ ബഫർ ഇൻവെർട്ടറുകൾ എന്നിവ അവതരിപ്പിക്കുന്നു അതിനാൽ ഇവിടെ നിങ്ങൾ ഒരു തടസ്സം അർത്ഥമാക്കുന്നത് ആഗോള നെറ്റ്വർക്ക് ടോപ്പോളജി ഒഴിവാക്കുന്നതിനുള്ള തടസ്സമാണ് കാരണം നിങ്ങൾ ബഫറുകൾ ചേർക്കുന്നതിനാൽ നിങ്ങൾ അവയെ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈനുകളുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് സർക്യൂട്ടുകളും തടസ്സങ്ങളും ഇതിനകം എവിടെയാണെന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട് നിങ്ങൾക്ക് ഉണ്ട് അത് പോലെ നെറ്സ് ഇടാൻ അതിനാൽ ലെയർ അസൈൻമെന്റ് ബഫർ ഇൻസെർഷൻ ഇവയാണ് ഇവിടെ പ്രധാന ഘട്ടങ്ങൾ അടുത്തത് വരുന്നത് റൂട്ടിംഗിൽ ഫിസിക്കൽ സിന്തസിസ് ചെയ്തതിനു ശേഷമാണ് അതിനാൽ ഇവിടെ സമയ തിരുത്തൽ ഒരു ഘട്ടമാണ് എവിടെ നെഗറ്റീവ് സ്ലാക്ക് ഉണ്ടായാലും നിങ്ങൾ ചില തിരുത്തൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒരുപക്ഷേ ഞാൻ ഇതിനകം സൂചിപ്പിച്ച രീതികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു വീണ്ടും നിങ്ങൾ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് ഉപയോഗിക്കുന്നു ചില ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രക്രിയ ആവർത്തിക്കുന്നു അതിനാൽ ടൈമിംഗ് തിരുത്തലിൽ ടൈമിംഗ് ഡ്രൈവഡ് റീസ്ട്രക്ച്ചറിങ് ഗേറ്റ് സൈസിങ് റീസ്ട്രക്ച്ചറിങ് ബൂലിയൻ റീസ്ട്രക്ച്ചറിങ് ഉപയോഗിക്കാം കൂടാതെ പിൻ സ്വാപ്പിംഗ് റീഡിസൈൻ ഫാനിൻ ട്രീസ് ഫാനൌട് ട്രീസ് എന്നിവ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ കണ്ട എല്ലാ സാങ്കേതികതകളും ഉൾക്കൊള്ളുന്നു അതിനാൽ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു അതിനാൽ ഈ സമയ പരിമിതി ഉണ്ടാക്കി ഫിസിക്കൽ സിന്തസിസ് നടത്തുന്നു ഇപ്പോൾ ഇത് അവസാന ഘട്ടമാണ് അതിനാൽ തുടർച്ചയായ മൂലകങ്ങളുടെ ലൊക്കേഷനുകൾ നിങ്ങൾ അന്തിമമാക്കുന്നു ക്ലോക്ക് നെറ്റ്വർക്കുകൾ അന്തിമമാകുമ്പോൾ നിങ്ങൾ അവ സമന്വയിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ സമന്വയിപ്പിക്കുമ്പോൾ ക്ലോക്ക് നെറ്റ്വർക്കിന് ശേഷം നിങ്ങൾ ഇത് ഒരിക്കൽ കൂടി ആഗോള റൂട്ടിംഗ് ലെയർ അസൈൻമെന്റ് ചെയ്യുക നിങ്ങൾ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് പോലെ ടൈമിംഗ് ഡ്രൈവൻ കൺജഷൻസ് ഡ്രൈവൻ വിശദമായ പ്ലെയ്സ്മെന്റ് എന്നിവ നിങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു അത് വീണ്ടും പരാജയപ്പെട്ടാൽ നിങ്ങൾ തിരികെ പോകുക വീണ്ടും നിങ്ങൾ അത് പരിഷ്ക്കരിക്കുക എന്നാൽ സമയ അനാലിസിസ് പാസായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടൈമിംഗ് ഡ്രൈവ് റൂട്ടിംഗിലേക്ക് പോകുക ഈ റൂട്ടിംഗ് സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ബഫറുകൾ ചേർക്കേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് ഇവിടെ ചില സമയ തിരുത്തൽ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കാം അതിനാൽ എല്ലാം പൂർത്തിയായിക്കഴിഞ്ഞാൽ നിങ്ങൾ വിശദമായ റൂട്ടിംഗ് നടത്തുക തുടർന്ന് നിങ്ങൾക്ക് ചില പരാന്നഭോജികൾ അനുകരണത്തിന്റെ ചില അധിക ഘട്ടങ്ങൾ എന്നിവ ചെയ്യാനും ഒടുവിൽ സൈൻ ഓഫ് ചെയ്യാനും കഴിയും നിങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്തെന്ന് സൈൻ ഓഫ് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ മാനുഫാക്ടറാബിലിറ്റി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് റീലിയബിലിറ്റി വെരിഫിക്കേഷൻ എന്നിവ നിങ്ങൾ പരിശോധിക്കുന്നു അതിനാൽ എല്ലാം കടന്നുപോകുന്നു തുടർന്ന് നിങ്ങൾ മാത്രം ഫാബ്രിക്കേഷനായി മാസ്ക് സൃഷ്ടിക്കാൻ മുന്നോട്ട് പോകുന്നു പക്ഷേ അത് പരാജയപ്പെട്ടാൽ നിങ്ങൾ ECO പ്ലേസ്മെന്റും റൂട്ടിംഗും എന്ന ഘട്ടത്തിലേക്ക് പോകും ECO എഞ്ചിനീയറിംഗ് മാറ്റ ഓർഡറിനെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് ഇത് അവസാന ഘട്ടത്തിലെ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങൾ ഒരു ഘട്ടത്തിലാണെന്ന് അർത്ഥമാക്കുന്നു ഇത് അന്തിമ നിർമ്മാണത്തിന് ഒരു പടി മാത്രം അതിനാൽ ഈ ഘട്ടത്തിൽ നിർമ്മാണവും വിശ്വാസ്യതയും സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ട് ചില ചെറിയ തിരുത്തലുകൾ വരുത്താൻ എന്നെ അനുവദിക്കൂ നിങ്ങൾ പോയി ചെറിയ തിരുത്തലുകൾ വരുത്തുക സമയപരിശോധന വീണ്ടും നടത്തുക അത് കടന്നുപോയാൽ വീണ്ടും പരാജയപ്പെട്ടാൽ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തുക ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിസൈൻ റൂൾ ഒരു കാര്യം പരിശോധിക്കുന്നു ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നു ലേഔട്ട് വേഴ്സസ് സ്കീമാറ്റിക് അതിനാൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരു ലേഔട്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ സ്കീമാറ്റിക് ഡയഗ്രം ഉണ്ടായിരുന്നു അവ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു താരതമ്യം ചെയ്യാം ആന്റിന ഇഫക്റ്റുകൾ ഇലക്ട്രിക്കൽ റൂൾ പരിശോധന പോലുള്ള ചില ഇലക്ട്രിക്കൽ ഇഫക്റ്റുകൾ ഉണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടിവരും കൂടാതെ ഈ പരിശോധനകൾ നടത്താൻ കഴിയുന്ന ചില നന്നായി നിർവചിക്കപ്പെട്ട ടെംപ്ലേറ്റുകളും ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആത്യന്തികമായി നിങ്ങളുടെ ലേഔട്ട് ഒരു വലിയ കാര്യമാണ് ദശലക്ഷക്കണക്കിന് ദീർഘചതുരങ്ങളുണ്ട് ഈ മുഴുവൻ ദീർഘചതുരത്തിലും നിങ്ങൾ ഈ പരിശോധന നടത്തേണ്ടിവരും ഇത് പ്രായോഗികവും ലളിതവുമായ പ്രക്രിയയല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഇത് നിങ്ങൾക്ക് കഴിയും ഇതോടൊപ്പം ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ എത്തുമെന്ന് ഞാൻ കരുതുന്നു അടുത്ത പ്രഭാഷണത്തിൽ ചില അധിക സമയ തിരുത്തൽ രീതികൾ കാണും കൂടാതെ ബഫറുകളും ഡ്രൈവറുകളും ഉൾപ്പെടുത്തൽ ഡ്രൈവർമാർ ബഫറുകൾ മുതലായവ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നു അതിനാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അവർക്ക് ആ വിവരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും